Cloud Computing ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് Prof Soumya Kanti Ghosh Department of Computer Science and Engineering Indian Institute of Technology Kharagpur Lecture - 09 പ്രഭാഷണം- 09 XML Basics XML അടിസ്ഥാനം ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെ അതിനാൽ നമ്മൾ DTD XML സ്കീമ XSD എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അതിനാൽ ഇന്ന് നമ്മൾ ആ ചർച്ചയും XML ന്റെ അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും തുടരും അതിനാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് XML സ്കീമയെ പങ്കിടാൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് കാണാനുള്ള ഒരു മാർഗ്ഗം അത് സ്കീമയുടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ XML ന്റെ വാലിഡേഷൻ വ്യക്തമാക്കാൻ കഴിയും ടൈപ്പ് വാലിഡേഷനോ പ്രഖ്യാപിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല അവ DTD യിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ അതിനാൽ ഇത് എന്റിറ്റികളിൽ പ്രതിനിധീകരിക്കുന്നു നമ്മൾ കാണുന്നത് XML തരം പ്രമാണമാണ് ഒരു XML ഡാറ്റ കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ XML ന്റെ പ്രധാന ആകർഷണം XML നെയിംസ്പേസ് നിന്ന് ആകാമെന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു അതിനാൽ അവ തമ്മിൽ വേർതിരിച്ചറിയാൻ എനിക്ക് ഫർണിച്ചർ ആവാം അതിനാൽ കീ നൽകിയിരിക്കുന്നു പക്ഷേ URL പ്രത്യേകിച്ച് ഒന്നും പരാമർശിക്കുന്നില്ല ഒരുപക്ഷേ ഒന്നും ഇല്ല അതിനാൽ ഇത് ചിലതിനെ പരാമർശിച്ചേക്കില്ല നെയിംസ്പെയ്സ് എന്നാണ് ഞാൻ അടിസ്ഥാനപരമായി കീ പരാമർശിക്കുന്നു mt പ്രിഫിക്സ് ഘടകങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് കഴിയും അതിനാൽ ഈ നെയിംസ്പെയ്സ് നോക്കുന്നതും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നതും കാര്യങ്ങൾ തരംതിരിക്കുന്നതുമാണ് മറ്റൊരു പ്രധാന വശം XML സോഫ്റ്റ്വെയറാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു

XML പാഴ്സർ മാത്രമല്ല പ്രവർത്തനക്ഷമത കുറവാണെങ്കിലും ഇത് വളരെ വേഗതയുള്ളതുമാണ് അതേസമയം DOM വേഗത കുറഞ്ഞ മെമ്മറി ഇൻടൻസീവ് പൊരുത്തപ്പെടുന്നുണ്ടോയെന്ന് സാധൂകരിക്കേണ്ടതുണ്ട് അപ്പോൾ വ്യത്യസ്ത പാഴ്സറുകളെ റിപ്പോർട്ടുചെയ്യുന്നു ഇവന്റുകൾ വളരെ വേഗതയുള്ളതും മൊത്തത്തിൽ ഉപയോഗിക്കാൻ ലളിതവുമാണ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ തിരിച്ചുള്ള വ്യാഖ്യാനം വിവിധ ഭാഷകളുമായി പരസ്പരം പ്രവർത്തിക്കുന്നു പോരായ്മ മന്ദഗതിയിലാകും ട്രീ കൈകാര്യം ചെയ്യുന്നു ഒരു DOM പാഴ്സറിന്റെ ആണ് അതിനാൽ ഇത് JAVAയുമൊത്തുള്ള DOM ന് സമാനമാണ് പ്രമാണത്തിന് അനുയോജ്യമായ മെമ്മറി ട്രീ ഉണ്ടെന്നാണ് പോരായ്മകൾ മന്ദഗതിയിലാകാം പുതിയതും പൂർണ്ണമായും പാകം ചെയ്യാത്തതുമാണ് ഈ ദിവസങ്ങളിൽ അതിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് ചില വൈദഗ്ദ്ധ്യം ആവശ്യമാണ് അത് JAVAയിൽ പ്രവർത്തിക്കുന്നു എന്നത് ദോഷകരമായിരിക്കാം അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് JAVA അറിയേണ്ടതുണ്ട് എന്നത് ഒരു വലിയ പ്രശ്നമായിരിക്കില്ല XML വായിക്കുന്നതിനും എഴുതുന്നതിനും നാവിഗേഷൻ സൌജന്യ ഉപയോഗം എന്നർത്ഥം ദോഷങ്ങളുമുണ്ട് അത് വീണ്ടും JAVA മാത്രമാണ് കൂടാതെ കാര്യങ്ങളുടെ ഓപ്പൺ സോഴ്സ് കൂടുതൽ സങ്കീർണ്ണമായ പ്രവർത്തനങ്ങൾ നടത്താനും ശ്രമിക്കും അതിനാൽ ഇവ ചില ബെഞ്ച്മാർക്ക് ഉണ്ട് XML പ്രോസസ്സിംഗ് എടുക്കുന്നു കൂടാതെ വ്യത്യസ്ത ഘടനയും തരങ്ങളും ഉള്ള ഒരു പുതിയ XML പ്രമാണം നിർമ്മിക്കുന്നു എനിക്ക് അടിസ്ഥാനപരമായി XSLT യിൽ ഒരു തരം ഫിൽട്ടറിംഗ് ചെയ്യാം പോരായ്മ വലിയ പ്രമാണത്തിനോ സ്റ്റൈൽ ഷീറ്റുകൾക്കോ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് മോശം പിശക് കണ്ടെത്തൽ തുടങ്ങിയവ മറ്റൊന്ന് പിശക് കണ്ടെത്തുന്നതിൽ അത്ര വൈവിധ്യപൂർണ്ണമല്ല ഇപ്പോൾ നിങ്ങൾ ചിത്രം നോക്കുകയാണെങ്കിൽ XML ഡാറ്റ ഉണ്ട്

അതിനാൽ എനിക്ക് ഇവിടെ ഒരു ട്രീ നീക്കാൻ നിലവിലുള്ള ഗതാഗത സംവിധാനം ഉപയോഗിക്കാം അതിനാൽ ഡാറ്റ അതിലൂടെ നിങ്ങൾക്ക് http https SMTP തുടങ്ങിയവ ചെയ്യാൻ കഴിയും ഇത്തരത്തിലുള്ള XML സന്ദേശമയയ്ക്കലിന് ചില ആവശ്യകതകളും ദോഷങ്ങളുമുണ്ട് സാധാരണ സന്ദേശമയയ്ക്കൽ മോഡലുകൾ ആണെന്ന് പറയുന്നു അതേസമയം XML സന്ദേശമോ XML പ്രമാണമോ കാര്യങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നു അത് ഒരു എൻവലപ്പാണ് അത് http പ്രോട്ടോക്കോൾ തന്നെയാണ് തുടർന്ന് അത് കാര്യങ്ങളിലേക്ക് ഉൾച്ചേർക്കുന്നു XML RPC പോലുള്ള സന്ദേശ ഫോർമാറ്റിനായി ചില മാനദണ്ഡങ്ങളുണ്ട് ഫംഗ്ഷൻ മെത്തേഡ് കോൾ ചെയ്യുന്നതിനും കൂടുതൽ സങ്കീർണ്ണമായ നിയമങ്ങൾ അതിനാൽ ഈ തരത്തിലുള്ള SOAP സന്ദേശ ഫോർമാറ്റിലൂടെ എത്തിക്കുകയും ചെയ്യുന്നു XML ന്റെ ഈ കുടുംബത്തെ നോക്കൂ അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ മധ്യഭാഗമാണ് കാര്യങ്ങളുടെ കാതൽ നമുക്ക് ഒരു XML XSLT XML X പാത്ത് ചെയ്യാൻ ശ്രമിക്കാനും കഴിയും എന്നിരുന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള API കളുണ്ട് ഇവ വ്യത്യസ്ത സ്റ്റൈലിംഗാണ് WSDL മെസേജിംഗ് WSDL UDTI എന്നിവ എനിക്ക് ഉള്ളത് നമുക്ക് mathml പോലുള്ള വ്യത്യസ്ത നാമമേഖലകളുണ്ട് കൂടാതെ ഗ്രാഫിക്സ് സൃഷ്ടിക്കാൻ കഴിയും അത് മറ്റേ അറ്റത്ത് കാണാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടായിരുന്നത് XML ന്റെ വളരെ അടിസ്ഥാനപരമായ ആമുഖ കാര്യങ്ങളാണ് XML ന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്ററോപ്പറബിളിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കുന്നതിനുള്ള യഥാർത്ഥ ഭാഷയാണ് XML XML ൻറെ അടിസ്ഥാനങ്ങളെ കുറിച്ച് ഇന്ന് ഇവിടെ വച്ച് നമുക്ക് നിർത്താം